നമസ്കാരം ഇന്നത്തെ ലെക്ച്ചറിൽ നമ്മൾ ചർച്ച ചെയുന്നത് ഡ്യുവലിറ്റി അഥവാ ദ്വിത്വം എന്ന വേറെയൊരു ആശയത്തെ കുറിച്ചു ആണ് വിവിധങ്ങളായ എഞ്ചിനീയറിംഗ് ഉപയോഗങ്ങളിൽ ദ്വിത്വം ഉപയോഗിക്കുന്നു പക്ഷെ ഈ കോഴ്സിൽ നമ്മൾ പ്രത്യേകമായി ചർച്ച ചെയുന്നത് ഇലെക്ട്രിക്കൽ സർക്യൂട്ടായി ദ്വിത്വത്തിൻറെ ബന്ധമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ദ്വിത്വം എന്നത് രണ്ട് സർക്യൂട്ടുകൾ ദ്വിവിധമാണെങ്കിൽ അതിന്റെ അർത്ഥം അതിൽ ഒന്നിനെ വിശേഷിപ്പിക്കുന്ന മെഷ് സമവാക്യം മറ്റേതിനെ വിശേഷിപ്പിക്കുന്ന നോഡൽ സമവാക്യത്തിന്റെ അതേ പോലത്തെ ഗണിതശാസ്ത്ര രൂപത്തിൽ ഉള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഷ് സമവാക്യം ഒരു സർക്യൂട്ടിൽ എഴുത്തുകയാണെങ്കിൽ കൂടാതെ നോഡൽ സമവാക്യം മറ്റേതിൽ എഴുത്തുകയാണെങ്കിൽ ഈ രണ്ട് സമവാക്യങ്ങളുടെയും ഗണിതശാസ്ത്ര രൂപം തുല്യമായിരിക്കും നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ കപ്പാസിറ്ററിനു കുറുകെ ഉള്ള കറണ്ട് എത്ര ആണ് ഇതുപോലെ തന്നെ ഇൻഡക്ടറിനു കുറുകെ ഉള്ള വോൾടേജ് എത്ര ആണ് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് സമവാക്യങ്ങൾ കണ്ടാൽ രണ്ടിലും ഗണിതശാസ്ത്രത്തിന്റെ നിബന്ധനകൾ ഒരുപോലെയാണ് ഇത് എന്തുകൊണ്ടെന്നാൽ രണ്ടിനും ഒരു പ്രമേയാഖ്യ ഡെറിവേറ്റീവ് മുന്നേ ഉണ്ട് ഡി ബൈ ഡിറ്റി ഓഫ് വി യും ഡി ബൈ ഡിറ്റി ഓഫ് കറണ്ട് i യും ഗണിതശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് രണ്ടിനും ഒരേ ഗണിതശാസ്ത്രരൂപം ആണ് അതിനാലാണ് ഇവ ദ്വിവിധം അപ്പോൾ ആ കേസിൽ എന്ത് സംഭവിക്കും കപ്പാസിറ്ററിനു കുറുകെ ഉള്ള കറണ്ട് ഇൻഡക്ടറിനു കുറുകെയുള്ള വോൾട്ടേജ് ആയി ദ്വിവിധമായിരിക്കും കപ്പാസിറ്റൻസ് ഇൻഡക്ടന്ടസിനോട് ദ്വിവിധമായിരിക്കും ഇത് പോലെത്തന്നെ കപ്പാസിറ്ററിനു കുറുകെ ഉള്ള വോൾടേജ് ഇൻഡക്ടറിനു കുറുകെയുള്ള കറണ്ട്നോട് ദ്വിവിധമായിരിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാം വിവിധങ്ങളായ ഘടകങ്ങളും വിവിധങ്ങളായ ഇലക്ട്രിക്കൽ പരിവർത്തിതവസ്തുക്കളും ദ്വിവിധം ആണെന്ന് ഇപ്പോൾ ഇതെല്ലം കൃത്യമായി ദ്വിവിധം ആണ് ഒരു സർക്യൂട്ടിലെ മെഷ് സമവാക്യം സംഖ്യാപരമായി അനന്യം ആണ്സദൃശമായ മറ്റേതിന്റെ നോഡൽ സമവാക്യം ആയിട്ട് ഈ കേസിൽ നമുക്ക് പറയാം ഈ രണ്ടു സർക്യൂട്ടുകളും കൃത്യമായി ദ്വിവിധം ആണെന്ന് ഇപ്പോൾ ഒരു വിശദമായ അന്വേഷണം വഴി നമുക്ക് ഈ ആശയം മനസ്സിലാക്കാം അതിനാൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന സർക്യൂട്ട്ന്റെ ചിത്രം നോക്കാം നമുക്ക് എന്തു ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ഈ രണ്ട് മെഷ് സമവാക്യങ്ങളും എഴുതാം അതിനാൽ നമുക്ക് ഓർമ്മിച്ചെടുകാം നമ്മൾ മെഷ് വിശകലനത്തിന്റെ കേസിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് നമ്മൾ അവിടെ മുഖ്യമായും DC സർക്യൂട്ടിനു വേണ്ടി ചെയ്തതാണെങ്കിൽ കൂടി പക്ഷേ ഇതു തന്നെ സ്രോതസ്സ് ഡിസി അല്ലാത്ത സർക്യൂട്ടിൽ ഉപയോഗിക്കാം ഈ കേസിൽ ഇത് സൈനുസോയിടൽ ആണ് പക്ഷേ സിദ്ധാന്തം ഡിസി കേസിലും എസി കേസിലും ഒരുപോലെ ആയിരിക്കും അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ രണ്ടു സർക്യൂട്ടുകൾ എടുത്താൽ എന്നിട്ട് മെഷ് കറണ്ട് ഉം ഉം ആയിട്ട് നിർവചിക്കുകയാണെങ്കിൽ നമുക്ക് മെഷ് സമവാക്യം എങ്ങനെ എഴുതാം

ഇനി ഈ മെഷിൽ ഈ കപാസിറ്ററിന് കുറുകെ പ്രാഥമിക വോൾടേജ് ഉണ്ടെന്ന് ആണ് നമ്മൾ ഊഹിച്ചിരിക്കുക ഇത് എന്നും കൊടുത്തിരിക്കുന്നു അതിന്റെ മൂല്യം 10 വോൾട്ടിന് സമം ആണ് അപ്പോൾ മെഷ് സമവാക്യം നമ്മൾ എങ്ങനെ എഴുത്തും മെഷ് സമവാക്യം നമ്മൾ ഈ രണ്ടാമത്തെ മെഷിനു എഴുതാം ഇനി നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് 2 സമവാക്യങ്ങൾ നിർമിക്കണം അതായത് നമ്മുടെ സർക്യൂട്ടിന്റെ കൃത്യമായ ദ്വിവിധം ഇവ വിവരിക്കണം മുന്നത്തെ സമവാക്യങ്ങൾ മെഷ് സമവാക്യങ്ങൾ ആയതുകൊണ്ട് മെഷ് സമവാക്യങ്ങളുടെ ദ്വിവിധം വേറൊന്നുമല്ല പക്ഷേ നോഡ് സമവാക്യമാണ് ഇപ്പോൾ നമുക് എന്ത് ചെയാം നമുക്ക് നോഡ് സമവാക്യം ആദ്യം എഴുതണം അതിന് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മെഷ് കറൻറ് നോഡൽ വോൾട്ടേജ് ആയിട്ടു മാറ്റിവയ്ക്കാം എന്നിട്ട് നമുക്ക് എഴുതാം ഈ കേസിൽ മെഷ് കറണ്ട് ആണെന്നും അതുകൊണ്ട് നമുക്ക് ആയിട്ട് മാറ്റിവയ്ക്കാം കൂടാതെ ആയിട്ട് മാറ്റിവയ്ക്കാം എന്നിട്ട് നമുക്ക് ഈ രണ്ട് സമവാക്യങ്ങളുടെ കൃത്യമായദ്വിവിധം എഴുതാം

അപ്പോൾ നമുക്ക് 2 സമവാക്യത്തിന്റെയും നോഡുകൾ കിട്ടി ഇനി നോക്കുക ഈ 2 നോഡൽ സമവാക്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉറപ്പിക്കുവാൻ സാധിക്കും അതായത് ഈ രണ്ട് നോഡുകൾ മാത്രമേ അടിസ്ഥാനപരമായി ഉള്ളൂ എന്ന് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആദ്യം ഈ രണ്ട് സമവാക്യങ്ങളെയും വിശകലനം ചെയ്യും എന്നിട്ട് ഇവ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും ഇപ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ രണ്ട് നോഡുകൾ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആദ്യം തന്നെ ഒരു വര വരയ്ക്കും റഫറൻസ് നോഡ് സൂചിപ്പിക്കുവാൻ കാരണം റഫറൻസ് നോഡ് എന്തു തന്നെ വന്നാലും ആവശ്യമുള്ളതാണ് എന്നിട്ട് രണ്ട് നോടുകൾ നമ്മൾ ദൃഢീകരിക്കും ഇവിടെ ആണ് ന്റെയും ന്റെയും പോസിറ്റീവ് റഫറൻസ് സ്ഥിതി ചെയുന്നത് ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഒരു റഫറൻസ് നോഡ് സൃഷ്ടിക്കുന്നു എന്തായാലും ഇത് ആവശ്യമുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നതുമൂലം ഇതിന്റെ ദ്വിവിധം ഉം ഉം ആയിരിക്കും ആംപിയറിന്റെ കറണ്ട് സ്രോതസ്സ് നോഡ് 1 ന്റെയും റഫറൻസ് നോഡിന്റെയും നടുക്ക് ആയിരിക്കും ഘടിപ്പിച്ചിരിക്കുന്നത് ഇത് എന്തുകൊണ്ട് എന്നുവെച്ചാൽ ഇത് നോഡൽ സമവാക്യമാണ് ഇത് ചിത്രീകരിക്കുന്നത് കറൻറ്ന്റെ മൂല്യമാണ് ഇത് ചിത്രീകരിക്കുന്നത് ഒരു നോഡിനെ മാത്രമായിട്ടാണ് ഇതിന്റെ അർഥം എന്താണെന്നുവെച്ചാൽ കറണ്ട് സ്ത്രോതസ്സു റഫറൻസ് നോടും നോഡ് വൺ ആയിട്ടും ആണ് ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കു എന്ത് എഴുതാം നമുക്ക് എഴുതാം ഒരു കറണ്ട് സ്ത്രോതസ്സിനെ തുല്യമൂല്യം ആയിട്ട് എന്തുകൊണ്ടെന്നാൽ വോൾടേജ് ആണ് കരണ്ടിനും അതെ അളവ് തന്നെ ആയിരിക്കും പക്ഷെ ഈ കേസിൽ ഇതിപ്പോൾ കറണ്ട് സ്ത്രോതസ്സു ആണ് ഇത് node 1 ന്റെയും റഫറൻസ് നൊഡിന്റെയും നടുവിൽ ആയിരിക്കും ഘടിപ്പിച്ചിരിക്കുക ഇനി ക്രമീകരണം എങ്ങനെ എന്ന് നോക്കാം വോൾടേജ് നോക്കുക ആണെങ്കിൽ ഈ വോൾടേജ് നൽകുന്നത് പോസിറ്റീവ് കരണ്ടു ആണ് അതായത് നമ്മൾ ഊഹിച്ച അതേ ദിശയിലുള്ളതാണ് ഈ കറണ്ട് ഇതാണ് കേസ് എങ്കിൽ അനുയോജ്യമായ ദ്വിവിധംകറണ്ട് സ്ത്രോതസ്സു വേറൊന്നുമല്ല മറിച്ചു നൊഡിലേക് കറണ്ടിനെ നൽകുന്നു ഇതിൽനിന്ന് മനസ്സിലാക്കേണ്ടത് നോഡ് ലേക് കറണ്ട് സ്ത്രോതസ്സിലുള്ള ദിശയിലേക് ആണ് ഇവ്വിധം നമുക്കു പറയാം കറണ്ട് പ്രവേശിക്കുന്നത് നോഡ് ഒന്നിലൂടെ ആണ് ഇനി സമവാക്യം നോക്കിയാൽ കാണാം അതിൽ വേറൊരു ഘടകമായി കാണാം എന്താണ് 3 വേറൊന്നുമല്ല പക്ഷെ കണ്ടക്ടൻസ് ആണ് ഇത് നോഡ് സമവാക്യത്തിലെ കറണ്ടിന്റെ മൂല്യത്തെ വിവരിക്കുന്നു അതിനാൽ ഇത് കറണ്ട് ആകും 3 കണ്ടക്ടൻസ്സും അപ്പോൾ 3 സീമെൻസ് കണ്ടക്ടൻസ് നോഡ് ഒന്നിന്റെയും റഫറൻസ് നോടിന്റെയും നടുക്ക് പ്രത്യക്ഷപ്പെടും കാരണം ഈ കേസിൽ ഇത് മെഷ് ഒന്നായിട്ട് ആണ് ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ 3 s കണ്ടക്ടൻസ് അടിസ്ഥാനപരമായി റെഫെറെൻസും നോഡ് ഒന്നും ആയിട്ട് ആണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത സമവാക്യത്തിലേക് വരാം നമുക്ക് രണ്ടു നോഡിലും അത്ര പൊതുവായിട്ട് ഇല്ലാത്ത പ്രമേയാഖ്യങ്ങളിലേക് ശ്രദ്ധകേന്ദ്രീകരിക്കാം അപ്പോൾ ഇത് രണ്ടും വേറൊന്നുമല്ല പക്ഷെ കറണ്ടിന്റെ മൂല്യം ആണ് ഇവ വേറൊന്നുമല്ല 8 ഹെൻറി ഇണ്ടക്ടറും 5 സീമെൻസ് കണ്ടുക്ടൻസും ആണ് ഇവ ഘടിപ്പിച്ചിരിക്കുന്നത് നോഡ് രണ്ടിലേക് ആണ് ഇപ്പോൾ ഇനി എന്തിനാണ് ഇണ്ടക്ടർ കാരണം നമ്മൾ ഇണ്ടക്ടറിന് കുറുകെ ഉള്ള വോൾടേജ് നോക്കിയാൽ അത് L ഡി ഐ ബൈ ഡി റ്റി ആണ് i വേറൊന്നും ആകില്ല പക്ഷെ 1 അപ്പോൺ L ഇന്റഗ്രൽ ഡി റ്റി ഇതൊരു വോൾടേജ് പ്രമേയാഖ്യ ആയതിനാൽ ഇത് രണ്ടും താരതമ്യം ചെയ്താൽ ഇണ്ടക്ടൻസിന്റെ മൂല്യം 8 ആയിരിക്കും വേറൊന്നുമല്ല നോഡ് 2 ലെ വോൾടേജ് ആണ് ഇനി ഇതായിരിക്കും ഇൻഡക്സ്സ്സ് കൂടാതെ കണ്ടുക്ടൻസും നമ്മൾ സമവാക്യം മൂന്നിൽ കണ്ടത് പോലെ അപ്പോൾ ഇത് രണ്ടും നോഡ് 2 യിലേക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതിനാൽ ഇത് രണ്ടും പാരലൽ ആയിരിക്കും 5 സിമെൻസ് കണ്ടുക്ടൻസും 8 ഹെൻട്രി ഇണ്ടക്ടൻസും അപ്പോൾ നമുക്ക് 1 2 3 4 എന്നീ സർക്യൂട്ട് ഘടകങ്ങൾ കിട്ടി ഇനി സമവാക്യങ്ങളിലെ പൊതുവായ ഘടകങ്ങളിലേക് വരാം ഇവ എന്താണ് വിവരിക്കുക ഇവ വിവരിക്കുക 4 ഫാറെഡ് കപാസിറ്റർ ആണ് നിങ്ങൾ ഇത് നോക്കിയാൽ ഇത് വേറെ ഒന്നുമല്ല പക്ഷേ രണ്ട് നോടുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന കറണ്ടിന്റെ മൂല്യമാണ് അപ്പോൾ ഇതാണ് കറണ്ടിന്റെ മൂല്യമെങ്കിൽ ഇത് സൂചിപ്പിക്കുക എന്താണ് കപ്പാസിറ്റർ കറണ്ട് ആയി പരസ്പരബന്ധം വരുത്തിയാൽ വേറൊന്നുമല്ല C ഡി വി ബൈ ഡി റ്റി ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്താൽ എന്നാൽ ഇതിനെ i1 എന്നും ഇത് i2 എന്നും വിളിക്കാം കൂടാതെ i1 മൈനസ് i2 അർത്ഥം ആക്കുന്നത് രണ്ട് നോഡുകളുടെ നടുക്ക് ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവസാനം നമുക്ക് കിട്ടിയത് വോൾട്ടേജ് v1 ന്റെയും v2 ന്റെയും നടുക്ക് ഘടിപ്പിച്ചിരിക്കുന്ന കപ്പാസിറ്റർ ആണ് ഇപ്പോൾ നമ്മൾ കപ്പാസിറ്ററും ഘടിപ്പിക്കുക ആണ് 4 ഫാറെഡ് മൂല്യം ഉള്ളതു അവസാനം എന്താണ് അവശേഷിക്കുന്നത് അവശേഷിക്കുന്നത് സമവാക്യം 4 അതായത് t യിൽ ഉള്ള ഇൻഡക്ടർ കറണ്ട് 0 ന് തുല്യം ആണ് കാരണം ഇവിടെ നിങ്ങൾ നോക്കിയാൽ മൈനസ് 10 ന്റെ മൂല്യം ആദ്യം വരുന്നത് ഒരുപക്ഷേ ഇത് നോഡിന്റെ സമവാക്യം ആയതിനാൽ ഇവിടെ വിവരിക്കുന്നത് കറണ്ടിന്റെ മൂല്യമാണ് അപ്പോൾ എന്താണ് ഇവിടെ അവശേഷിക്കുന്നത് അതിന്റെ കുറുകെയുള്ള വോൾട്ടേജ് 10 വോൾട്ട് ആണ് അപ്പോൾ ദ്വിത്വം ഉള്ള കേസിൽ ഇത് കൂടെയുള്ള കറണ്ട് ആയിരിക്കും അപ്പോൾ നമുക്കിവിടെ ഊഹിക്കാം വീണ്ടും ആദ്യത്തെ കേസ് പോലെ തന്നെ ആണെന്ന് കാരണം ഇവിടെ നമ്മൾ സങ്കൽപ്പിക്കുക റ്റി എന്ന സമയത്ത് കപ്പാസിറ്ററിനു കുറുകെയുള്ള കരണ്ട് പൂജ്യത്തിന് സമമാണെന്ന് അപ്പോൾ ഇവിടെയും നമുക്ക് പറയാം റ്റി യിൽ ഉള്ള കറണ്ടിന്റെ മൂല്യം പൂജ്യം ആണെന്ന് മൂല്യം 10 ആമ്പിയർ ആണെന്ന് അപ്പോൾ നമുക്ക് വിവരിക്കാം എന്ന റ്റി യിൽ ഉള്ള ആദ്യത്തെ കറണ്ട് 0 നു തുല്യം ആണെന്ന് ഇനി നമ്മൾ എങ്ങനെ ക്രമീകരണം ചെയ്യും വീണ്ടും ഈ സർക്യൂട്ട് നോക്കിയാൽ വോൾടേജ് i2 മെഷ് കറണ്ടിന്റെ ദിശ ആയിട്ട് എതിർ ആണ് ഈ കേസിൽ കറണ്ട് നോൺ റഫറൻസ് നോഡ് v2 വിന്റെ അകത്തേക്കു പോകില്ല പക്ഷെ നോൺ റഫറൻസ് നൊടിന്റെ പുറത്തേക് വരും അപ്പോൾ അതാണ് കറണ്ടിന്റെ ദിശ ഈ ദിശയിൽ ഇപ്പോൾ മെഷും നോഡൽ സമവാക്യങ്ങളും വിശകലനം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സർക്യൂട്ടിൽ ആണ് ഇപ്രാവശ്യം ചിലപ്പോൾ ഇതു വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കൂടുതൽ നോഡുകളും മെ ഷുകളും ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു സാദൃശ്യം ഇവിടെ ചർച്ച ചെയ്തു നോക്കാം അതായത് ഈ സർക്യൂട്ടുകൾ സമവാക്യങ്ങൾ എഴുതി നമുക്ക് കുറെക്കൂടി പെട്ടെന്ന് കിട്ടാം എന്തുകൊണ്ട് എന്നുവച്ചാൽ സൂക്ഷ്മ പരിശോധന ചെയ്തു അത് നമ്മൾ ദ്വിവിധ സർക്യൂട്ട് നിർമ്മിക്കും ഇത് എങ്ങനെ ചെയ്യാം ഓരോ മെഷും ഓരോ നോൺ റഫറൻസ് നോടിനെ ബന്ധിപ്പിക്കണം ഇതുകൂടാതെ ഒരു റഫറൻസ് നോഡ് ഇവിടെ രണ്ട് മെഷുകളുണ്ട് ഈ സർക്യൂട്ടിൽ അപ്പോൾ ഓരോ മെഷും നമുക്ക് സങ്കൽപ്പിക്കാം ഒരു നോഡ് ഈ 2 മെഷിലും ഉണ്ടെന്ന് കൂടാതെ ഒരു വ്യത്യസ്ത നോഡു ഉണ്ട് എന്ന് ഇവ v1 ഉം v2 ഉം ആണെന്ന് സങ്കല്പിക്കുക സൂക്ഷ്മ പരിശോധന വഴി നമുക്ക് പറയാം രണ്ട് നോൺ റഫറൻസ് നോടുകൾ ഉണ്ടെന്ന് കാരണം ഇവിടെ രണ്ട് മെഷുകൾ നിർമ്മിക്കപ്പെടുന്നു കൂടാതെ അധികമായി നമുക്ക് ഒരു റഫറൻസ് നോഡ് വേണം ചിത്രത്തിൽ ഇവിടെ നമ്മൾ ഓരോ മെഷിന്റെയും നടുക്ക് ഒരു നോഡ് നിക്ഷേപിക്കുന്നു ചിത്രത്തിന് അരികെ ഒരു വരയായിട്ടു റഫറൻസ് നോഡ് എത്തിച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഒരു ലൂപ്പ് ചിത്രത്തിൽ വളച്ചു കിട്ടുന്ന രീതിയിൽ കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ പറയാം ലളിതമായ നോഡ് അല്ലെങ്കിൽ നമുക്ക് ഒരു വര നോഡിനുവേണ്ടി ഉണ്ടാക്കാം ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഘടിപ്പിക്കാം നമുക്ക് ഒരു റഫറൻസ് ഏതു രൂപത്തിലും ചിത്രീകരിക്കാം ചിലപ്പോൾ നോടുകൾ ഉള്ള ഓരോ നോഡിലും ഒരുപോലെ ശക്തിയുള്ള ഒരു വലിയ വര ആയിട്ട് ഇപ്പോൾ ഓരോ ഘടകവും പ്രത്യക്ഷപ്പെടുന്നത് അന്യോന്യമായിട്ട് ഉള്ള രണ്ട് മെഷിന്റെയും ഘടകം ആയിട്ടാണ് അതിനാൽ ഈ രണ്ടു യോജിച്ച നോഡൽ സമവാക്യങ്ങളിൽ ആയി ദ്വിവിധ പ്രമേയാഖ്യ ആയിട്ട് ഒരു ഘടകം മാറ്റി വെക്കണം ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഇവിടുത്തെ ഘടകം അതായത് ഈ രണ്ടു മെഷുകളുടെയും ഇടയ്ക്ക് ഘടിപ്പിച്ചിട്ടുള്ള ഈ ഘടകം എന്തായിരിക്കും ഈ ഘടകത്തിന്റെ ദ്വിവിധത്തിനു എന്ത് സംഭവിക്കും കപ്പാസിറ്റന്സ് ആണ് ഇതിന്റെ ദ്വിവിധം ഇവിടെ നമുക്ക് എന്ത് എഴുതാം നമുക്ക് പറയാം ഈ കപ്പാസിറ്ററിന്റെ ദ്വിവിധം ഇങ്ങനെ ആയത് എന്തുകൊണ്ട് എന്നുവെച്ചാൽ അത് രണ്ടും മെഷ്ന്റെ ഇടയ്ക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതിനാൽ ആണ് ഇത് നോഡൽ കേസിൽ രണ്ട് നോടുകളുടെ ഇടയിലായിരിക്കും ഘടിപ്പിക്കുക അപ്പോൾ നമുക്ക് വളരെ ലളിതമായി തന്നെ ഈ രണ്ട് നോടുകളെയും ഒരു കപ്പാസിറ്ററിലേക്ക് കൂട്ടിച്ചേർക്കാം അടുത്തത് എന്താണ് ഗണിതശാസ്ത്രപരമായ സമവാക്യം തുല്യം ആകണമെങ്കിൽ ഇണ്ടക്ടൻസ് കപ്പാസിറ്ററുമായി മാറ്റിവയ്ക്കണം കപ്പാസിറ്റൻസ് ഇണ്ടക്ടൻസുമായി കണ്ടക്ടൻസ് റസിസ്റ്റൻസുമായി റസിസ്റ്റൻസ് കണ്ടക്ടൻസുമായി അതായത് ഇതെല്ലാം തമ്മിൽ ദ്വിവിധം ആയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇതിനുമുൻപേ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇതായിരിക്കും കപ്പാസിറ്റൻസ് എന്ന് അപ്പോൾനിങ്ങൾ ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കും ഇനി 3 ഓം റെസിസ്റ്റൻസ് 8 ഫാറെഡ് കപ്പാസിറ്റർ 5 ഓം റെസിസ്റ്റൻസ് ഇതൊക്കെ ആണ് അതാത് മെഷിൽ ഉള്ളത് ഇതിന്റെ അർത്ഥം ദ്വിവിധം അവരെ സംബന്ധിച്ചിട്ടുള്ള നോഡിലോട്ട് മാത്രമേ ഘടിപ്പിച്ചിട്ടുള്ളു നമുക്ക് റെസിസ്റ്റൻസ് റഫറൻസ് നോഡുമായിട്ട് ഘടിപ്പിക്കാം മൂല്യം ഇതായിരിക്കും റെസിസ്റ്റൻസ് മൂല്യം ആയിരിക്കില്ല ഇത് 5 മോ അഥവാ 5 സീമെൻസ് കണ്ടക്ടൻസോ ആയിരിക്കും അതുപോലെ തന്നെ ഈ കപ്പാസിറ്ററിനു നമുക്ക് എന്ത് പറയാം നമുക്ക് പറയാം ഈ കപ്പാസിറ്ററിന്റെ ദ്വിവിധം ഇണ്ടക്ടൻസ് ആണെന്ന് മൂല്യം 8 ഹെൻറി ആയിരിക്കും ഇത് റഫറൻസ് നോഡിന്റെയും നോൺ റഫറൻസ് നോഡ് v2 ന്റെയും ഇടയ്ക് ആയിരിക്കും ഘടിപ്പിച്ചിരിക്കുക അതുപോലെ തന്നെ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് പറയാം നമുക്ക് പറയാം ഇതിന്റെ ദ്വിവിധം കണ്ടക്ടൻസ് ആണെന്ന് മൂല്യം 3 മോ അവസാനം എന്താണ് ബാക്കിയായിരിക്കുക ബാക്കിയിരിക്കുന്ന മൂല്യം വോൾട്ടേജ് സ്രോതസ്സ് ആണ് ഈ കേസിൽ ഇത് വേറൊന്നും അല്ല കറണ്ട് സ്രോതസ്സ് ആണ് ഇനി എന്തായിരിക്കും ദിശ വോൾടേജ്ന്റെ ദിശ പോസിറ്റീവ് കറണ്ട് ആയിരിക്കും തരിക കറണ്ടും എങ്ങനെ തന്നെ ആയിരിക്കും എന്നുവെച്ചാൽ അത് അകത്തേക്ക് ആണ് പോകുന്നത് അതിനാൽ ദിശ ഇങ്ങനെആയിരിക്കും അതിനാൽ ഇങ്ങനെ നമുക്ക് വളരെ ലളിതമായി തുല്യ വസ്തുവിന്റെ മൂല്യം വിവരിക്കാം നമ്മൾ ചർച്ച ചെയ്തത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം ഇതൊക്കെയാണ് മൂല്യങ്ങൾ അത് കൂടാതെ ഇതൊക്കെയാണ് റഫറൻസ് നോഡിലേക്ക് ഘടിപ്പിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ചുരുക്കി പറയാം നമ്മൾ എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ ഒരു മെഷിൽ മാത്രം ഉള്ള ഘടകങ്ങൾക്ക് ദ്വിവിധം വേണം അത് ഉൾപ്പെടെണ്ടത് അതിന്റെതായ നോടിന്റെയും റഫറൻസ് നോടിന്റെയും ഇടയ്ക്കു മാത്രം ആണ് ഇപ്പോൾ വോൾടേജ് 2 cos 6t മെഷ് ഒന്നിൽ മാത്രം പ്രത്യക്ഷപ്പെടും അതിനാൽ അതിന്റെ ദ്വിവിധംകറണ്ട് സ്ത്രോതസ്സ് ആയിരിക്കും മൂല്യം 2 cos 6t ആയിരിക്കും അതിനാൽ അത് നോഡ് ഒന്നിനോടും റഫറൻസ് നോടിനോടും ആയിട്ട് ആണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഇനി ഘടികാരദിശയിൽ ഉള്ള നമ്മൾ കണ്ട വോൾടേജ് സ്ത്രോതസ്സു എന്താണെന്ന് വെച്ചാൽ വോൾടേജ് കറണ്ട് ആണ് നൽകുന്നത് അത് പ്രവഹിക്കുന്നത് ഘടികാരദിശയിൽ ആണ് അതിനാൽ ദ്വിവിധം കറണ്ട് ആയിരിക്കും ഇത് നോൺ റഫറൻസ് നൊടിന്റെ അകത്തേക് പോകുന്നത് ആയിരിക്കണം 8 ഫാറെഡ് കപ്പാസിറ്ററിനു കുറുകെ ഉള്ള തുടക്കത്തിലേ വോൾടേജിനു ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ഈ കേസിനെ എന്തു സംഭവിക്കും 8 ഫാറെഡ് കപ്പാസിറ്റർ വോൾടേജ് 10 ആമ്പിയർ കറണ്ട് ആയി വിവരിക്കും ഇതാണ് കപ്പാസിറ്റർന്റെ ദ്വിവിധം അപ്പോൾ തുടക്കത്തിലുള്ള കപ്പാസിറ്ററിനു കുറുകെ ഉള്ള വോൾടേജ് ഇൻഡക്ടർ കൂടെയുള്ള തുടക്കത്തിലുള്ള ദ്വിവിധം സർക്യൂട്ടിലെ കറണ്ട് ആണ് ഇനി എന്തായിരിക്കും മൂല്യം ഇവിടെ മൂല്യം ആയിരിക്കും കാരണം ഇത് കറൻറ്ന്റെ എതിർ ദിശയിൽ ആണ് അതിനാൽ കറണ്ട് ആയിരിക്കും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് പറയാം 10 ആമ്പിയർ കറണ്ട് വരുന്നുണ്ട് അത് വരുന്നത് നോൺ റഫറൻസ് നോഡിൽനിന്ന് പുറത്തേക്കാണ് അതിനാൽ കറണ്ടിന്റെ ദിശ ഇങ്ങനെ ആയിരിക്കും പക്ഷെ ഇത് നമ്മൾ മെഷ് വിശകലത്തിന്റെ കേസിൽ എടുത്ത സങ്കല്പത്തിന് വിപരീതം ആയിരിക്കും കാരണം കപ്പാസിറ്ററിനു കുറുകെ ഉള്ള വോൾടേജ് മെഷ് കറണ്ടിന്റെ പ്രവാഹത്തെ എതിർക്കുന്നു ഇതാണ് ദ്വിവിധം കറണ്ടിന്റെ ദ്വിവിധ മൂല്യം ഇണ്ടക്ടറിലൂടെ ഉള്ള ദ്വിവിധ കറണ്ടിന്റെ ദിശ പുറത്തേക് വരുന്ന രീതിയിൽ ആയിരിക്കണം ഇങ്ങനെ സമാന കാര്യം വഴി നമുക്ക് എളുപ്പത്തിൽ ഒരു സർക്യൂട്ടിന്റെ ദ്വിവിധം വിവരിക്കാം ഇനി നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം നിങ്ങൾക് നമ്മൾ ഇത്രയും ചർച്ച ചെയ്തത് കുറച്ച് കൂടി മനസ്സിലാക്കുവാൻ വേണ്ടി സങ്കൽപ്പിക്കുക നമുക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ചിത്രം ഉണ്ടെന്ന് അവിടെ രസിസ്റ്റൻസും ഇണ്ടക്ടസിന്സും സീരിസായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു കൂടാതെ നമുക്ക് ഒരു കപ്പാസിറ്റൻസ് ഒരു റെസിസ്റ്റൻസ് പിന്നെ ഒരു കപ്പാസിറ്റൻസ് ഈ രണ്ട് നോഡുകളുടെ ഇടയിലും ഉണ്ട് അപ്പോൾ എന്താണ് പലവിധ മെഷ് കറണ്ടുകൾ നമുക്ക് പറയാം 3 മെഷ് ഉണ്ടെന്ന് അതായത് i1 i2 i3 സാധാരണ ചെയ്യുന്നതുപോലെ പോലെ മെഷ് സമവാക്യം എഴുതിയതിനു ശേഷം അതിന്റെ നോഡ് സമവാക്യം കണ്ടുപിടിക്കുന്നതിനു പകരം നമ്മൾ വളരെ ലളിതമായി ഒരു സമാനമായ കാര്യം ഉപയോഗിക്കുന്നു നമ്മൾപറയുകയാണ് എന്താണ് ഒരു ഘടകത്തിന്റെ ദ്വിവിധം എന്നിട്ട് നമുക്ക് ദ്വിവിധ സർക്യൂട്ട് വരയ്ക്കാം അപ്പോൾ ഈ കേസിൽ ഇൻഡക്ടറിനു കപ്പാസിറ്റർ ആണ് ദ്വിവിവിധം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളാദ്യം നോഡുകളെ തിരിച്ചറിയും അപ്പോൾ മൂന്ന് നോഡുകൾ ഉണ്ട് കാരണം 3 മെഷുകളും കൂടാതെ ഒരു റഫറൻസ് നോഡു ഈ മെഷ് കറണ്ടിൽ ഉണ്ട് i1 മെഷ് കറണ്ട് ഇണ്ടക്ടൻസിലൂടെ പ്രവഹിക്കുന്നു ഈ ദിശയിൽ ആ സമയം തന്നെ കറണ്ട് i2 മുകളിലത്തെ മെഷ്ലൂടെ ഈ ദിശ യിൽ പ്രവഹിക്കുന്നു അപ്പോൾ ഇതിന്റെ അർഥം എന്താണെന്ന് വെച്ചാൽ i1 മൈനസ് i2 ആണ് ഈ ഇൻഡക്ടർലൂടെ പ്രവഹിക്കുന്ന കറണ്ട് ഇതിന്റെ അർത്ഥം നോഡൽ സംഖ്യയിൽ ഇൻഡക്ടറിനെ നമ്മൾ കപ്പാസിറ്ററു മായി മാറ്റിവച്ചാൽ കപ്പാസിറ്റർ v1 നോഡിന്റെയും v2 നോഡിന്റെയും ഇടയിൽ ഘടിപ്പിക്കേണ്ടത് ആണ് ഇവിടെ നമ്മൾ നോഡ് കപ്പാസിറ്റർ v1 നോഡിന്റെയും v2 നോഡിന്റെയും ഇടയിൽ ഘടിപ്പിച്ചിരിക്കുന്നു ഇതുപോലെതന്നെ കറണ്ട് ഐ വൺ മൈനസ് ഐ ടു ആണ് അതായത് ഈ റസിസ്റ്റൻസ്ന്റെ ദ്വിവിധം അതായത് കണ്ടക്ടൻസ് നോഡ് ഒന്നിന്റെയും നോഡ് രണ്ടിന്റെയും ഇടയ്ക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതിനാൽ ഈ കണ്ടക്ടൻസ് ഈ നോഡിലെ കപ്പാസിറ്റൻസിനോഡ് പാരലൽ ആയിട്ടാണ് നമ്മൾ ഘടിപിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇത് നോക്കിയാൽ കാണാം ഈ രണ്ട് ഇൻഡക്ടറും റെസിസ്റ്ററും നോഡ് 2 ന്റെയും നോഡ് 3 ന്റെയും ഇടയിൽ ആണ് ഘടിപ്പിച്ചിരിക്കുന്നത് കാരണം നമ്മൾ ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത് കറണ്ട് i3 ഈ ദിശയിൽ ആണെന്നാണ് കൂടാതെ കറണ്ട് i2 ഈ ദിശയിലും അതിനാൽ ഇതിൽ കാണാം ഇൻഡക്ടർ ദ്വിവിധം അതായത് കപാസിറ്റർ വീണ്ടും നോഡ് 2 ന്റെയും നോഡ് 3 ന്റെയും ഇടയിൽ ആണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇത് പോലെ തന്നെ റെസിസ്റ്റൻസ് ദ്വിവിധ കാര്യത്തിലും അതായത് കണ്ടക്ടൻസും നോഡ് 2 ന്റെയും നോഡ് 3 ന്റെയും ഇടയിൽ ആണ് ഘടിപ്പിച്ചിക്കുക ഇനി നമുക്കു എന്താണ് ബാക്കി ഉണ്ടാവുക കപാസിറ്റന്സസ് മൂല്യം അതായത് സർക്യൂട്ട്ന്റെ ഈ വശത്തു നിന്നും ആ വശം വരെ ഏതു കറണ്ട് ആണ് ഇവിടെ പ്രവഹിക്കുന്നത് ഇത് നോക്കിയാൽ കറണ്ട് i2 മാത്രമേ ഉള്ളു വേറെ കറണ്ട് ഇല്ല ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കപാസിറ്റന്സസ്ന്റെ ദ്വിവിധം അതായത് ഇണ്ടക്ടൻസ് നോഡ് 2 ന്റെയും റഫറൻസ് നൊഡിന്റെയും ഇടയിൽ ആണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതിനാലാണ് ഇവ നോഡ് 2 ന്റെയും റഫറൻസ് നൊടിന്റെയും ഇടയിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തിലെ എല്ലാ ഘടകങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു അവസാനം നമുക്കു ബാക്കി ആയിട്ട് ഉള്ളത് ഈ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ആണ് ഒരേയൊരു നോഡ് മെഷ് കറണ്ട് i3 പ്രവഹിക്കുന്നത് ഇതിന്റെ അർത്ഥം ഇതിന്റെ ദ്വിവിധം നോഡ് 3 ന്റെയും റഫറൻസ് നൊടിന്റെയും ഇടയ്ക്ക് ഘടിപ്പിക്കപെടും അപ്പോൾ ഇതിന്റെ ദ്വിവിധം നോഡ് കണ്ടക്ടൻസ് നോഡ് 3 ന്റെയും റഫറൻസ് നൊടിന്റെയും ഇടയ്ക്ക് ഘടിപിക്കപെടും ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് വോൾട്ടേജ് സ്രോതസ്സ് ആണ് വോൾട്ടേജ് സ്രോതസ്സ് ഒരു പോസിറ്റീവ് കറണ്ട് ഈ മെഷിലേക്ക് കൊടുക്കുന്നു ഇതിന്റെ അർത്ഥം ഒരു കറണ്ട് സ്രോതസ്സ് ആയിരിക്കും അത് അകത്തു നിന്നാണ് വരുന്നത് ഇതിനാലാണ് ഇതിന്റെ ദ്വിവിധം കറൻഡ് സ്ത്രോതസ്സ് ആയി കറണ്ട് ഈ ദിശയിലും ആയി വിവരിച്ചിരിക്കുന്നത് കാരണം കറണ്ട് ഇവിടെ മെഷിനോട് ഘടികാരദിശയിൽ ആണെങ്കിൽ ഇതിന്റെ അർത്ഥം ഇതിനോട് ചേർന്ന ദ്വിവിധം കറൻഡ് സ്രോതസിനു കറണ്ട് നോഡിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതാണ് കാണുന്നത് സർക്യൂട്ടും ഇതിന്റെ ദ്വിവിധവും ഉപയോഗിച്ചു അതിനാൽ ഒരോ ഘടകവും വരുന്നിടത്തു നമുക് ദ്വിവിധം സർക്യൂട്ട് വരയ്ക്കാം ഇനി വീണ്ടും ക്രമപ്പെടുത്തുക സർക്യൂട്ട് ഈ കാണിച്ചിരിക്കുന്നതുപോലെ കിട്ടും ഇവിടെ നമുക്ക് കാണാം കണ്ടക്ടർ കപ്പാസിറ്റസ്സും പാരലൽ ആയിട്ട് സ്രോതസ്സ് v1 കാണാം ഇത് v2 അതായത് നോഡ് 1 നോഡ് 2 നോഡ് 3 കപ്പാസിറ്ററും കണ്ടക്ടസ്സും കപ്പാസിറ്റസ്സും ആയിട്ടു പാരലൽ ആയി ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചിത്രീകരണം ഇങ്ങനെയാണ് ഇനി v2 ന്റെയും v3 യുടെയും ഇടയ്ക്കു നമുക്ക് ഒരു കപ്പാസിറ്റസ്സും കൂടാതെ ഒരു കണ്ടക്ടസ്സും നമ്മൾ ഇങ്ങനെ വിവരിച്ചു കഴിഞ്ഞു ഇനി ഇണ്ടക്ടൻസ് ആയിട്ടുള്ള ഘടകം നോഡ് 2 ന്റെയും റെഫെറെൻസിന്റെയും ഇടക്കു ഘടിപ്പിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ കണ്ടക്ടസ്സ് കിട്ടി കൂടാതെ നിങ്ങൾക്ക് വേറൊരു ഇണ്ടക്ടർ v1 ന്റെയും v3 യുടെയും ഇടയ്ക്കു ഘടിപ്പിച്ചിരിക്കുന്നത് ഉണ്ട് അവസാനം നോഡ് 3 യിലെയും റെഫെറെൻസിന്റെയും ഇടക്കു നിങ്ങൾക്ക് ഒരു കണ്ടക്ടസ്സും കറണ്ട് സ്ത്രോതസ്സും ഉണ്ട് ഇവ റെഫെറെൻസിന്റെയും നോഡ് 1 ന്റെയും ഇടയ്ക്കു ഘടിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഈ സർക്യൂട്ട് നമുക്ക് അതുപോലെ വിവരിക്കാം അതിനാൽ നിങ്ങൾക്കു ഒരു സംശയവും കൂടാതെ ദ്വിവിധം സർക്യൂട്ട് വിവരിക്കാം ഇപ്പോൾ അടിസ്ഥാനപരമായി എന്താണ് സംഭവിച്ചിരിക്കുന്നത് സർക്യൂട്ട് ദ്വിവിധം സർക്യൂട്ട് ആയി ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഈ സർക്യൂട്ടിൽ നിന്ന് തിട്ടപ്പെടുത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിക്ക സീരിസിൽ ഉള്ള സർക്യൂട്ട് ഘടകങ്ങളും ഇപ്പോൾ പാരലലിലേക്കു രൂപഭേദം വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് പറയാം എന്തെല്ലാം ആണ് വിവിധ ദ്വിവിധ ഘടകങ്ങൾ റെസിസ്റ്റൻസ് കണ്ടക്ടൺസിലേക് മാറ്റാം ഇണ്ടക്ടൻസ് L കപ്പാസിറ്റൻസിലേക് മാറ്റാം വോൾടേജ് V കറണ്ട് I ലേക് മാറ്റാം വോൾടേജ് സ്ത്രോതസ്സ് കറണ്ട് സ്ത്രോതസ്സു ആകാം ദ്വിവിധ സർക്യൂട്ടിന്റെ സ്ത്രോതസ്സ് നോഡ് മെഷ് ആകാം ദ്വിവിധ സർക്യൂട്ടിൽ സീരീസ് മാർഗ്ഗം പാരലൽ ആകാം ഇതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഓപ്പൺ സർക്യൂട്ട് ഷോർട് സർക്യൂട്ട് ആകാം KVL KCL ആകാം ഇതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് അതായത് മെഷ് സമവാക്യം വേറൊന്നുമല്ല പക്ഷെ KVL പിന്നീട് നമ്മൾ ദ്വിവിധം KCL ന്റെ സഹായത്തോടെ ഉണ്ടാക്കി ഇത് വേറൊന്നുമല്ല പക്ഷെ നോഡ് സമവാക്യം ആണ് അപ്രകാരം നമ്മൾ ദ്വിവിധ സർക്യൂട്ട് ഉണ്ടാക്കി നമുക്കു ഈ ദ്വിവിധ സർക്യൂട്ടിന്റെ ചർച്ച വെച്ചിട്ട് ഇന്നത്തെ ലെക്ചർ അവസാനിപ്പിക്കാം അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ദ്വിവിധ സർക്യൂട്ട് എന്താണ് ദ്വിത്വം അടുത്ത ലെക്ചറിൽ നമുക്ക് വിവിധ നെറ്റ്വർക്ക് സിദ്ധാന്തങ്ങളായ തേവേനിയൻ സിദ്ധാന്തം നോർട്ടൻ സിദ്ധാന്തം പോലുള്ളവ നോക്കാം